ട്രാൻസിസ്റ്റേഴ്സ് ഒപാംപ് എന്നിവ ഉപയോഗിച്ചു കൊണ്ടുള്ള കൺട്രോൾഡ് സോഴ്സസ് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നവരാണെങ്കിൽ ചെറിയ ഒരു ചതി നടന്നിരുന്നതായി കാണാൻ സാധിക്കും അതായത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഞാൻ നാലു തരത്തിലുള്ള കൺട്രോൾ സോഴ്സസ് രൂപീകരിച്ചിരുന്നു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് പക്ഷേ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൽ ഗെയിൻ 1 ആണ് ഞാൻ Vo kVi എന്നതിൽ k ഒന്ന് അല്ലാതെ മറ്റൊന്നും റിയലൈസ് ചെയ്തിട്ടില്ല അതുപോലെ കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സിൽ ഗെയിൻ 1 ആണ് ഇവിടെ ഞാൻ Io k ii എന്നതിൽ k ഒന്ന് അല്ലാതെ മറ്റൊന്നും റിയലൈസ് ചെയ്തിട്ടില്ല ഒപാംപിൻറെ കാര്യത്തിൽ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്നിവ മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ ഗെയിൻ എന്തുമാകാം ഇവിടെ k ഒന്നിനേക്കാൾ വലുതാകാം ഞാൻ എന്തുകൊണ്ടാണ് ഇവയിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് എന്നിവയുടെ കാര്യത്തിൽ ഗെയിൻ എന്തുകൊണ്ടാണ് ഒന്നിലേക്ക് ആയി നിയന്ത്രിച്ചത് ഇതിൻറെ ഉദ്ദേശ്യം എന്തെന്നാൽ ഇതുപോലുള്ള ഒരു ബേസിക് കണ്ട്രോൾ സോഴ്സ് ഉണ്ടായിരുന്നു എന്ന് കരുതുക ഇവിടെ ഒരു Vx ഉണ്ടെങ്കിൽ ഇത് എനിക്ക് ഒരു gmVx നൽകും അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് ആണ് ഉള്ളതെങ്കിൽ ഇത് Vx ആണെങ്കിൽ AoVx ലഭിക്കും ഇനി ഇവ ഉപയോഗിച്ച് എനിക്ക് മറ്റേതു തരത്തിലുമുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾഡ് കറൻറ് സോഴ്സസ് നിർമ്മിക്കാൻ സാധിക്കും അതിനാൽ പ്രധാനമായും ഇവ ഉപയോഗിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഏതു കൺട്രോൾഡ് സോഴ്സും നിർമ്മിക്കാൻ സാധിക്കും ഈ gm വളരെ വലുതാണെങ്കിൽ കൺട്രോൾഡ് സോഴ്സിൻറെ ട്രാൻസ്ഫർ റേഷ്യോ gm എന്നതിൻറെ യഥാർത്ഥ വാല്യൂവിന് ഇൻസെൻസിറ്റീവ് ആയിരിക്കും gm 10 ഫാക്ടർ വരെ വ്യതിയാനം സംഭവിക്കാം പക്ഷേ ട്രാൻസ്ഫർ റേഷ്യോയിൽ വലിയ മാറ്റം സംഭവിക്കുന്നില്ല അതുപോലെ Ao വളരെ വലുതായിരിക്കണം ഇത് 10000 അല്ലെങ്കിൽ 100000 ആയാൽ തന്നെയും 10 ഫാക്ടർ വ്യത്യാസം സംഭവിച്ചാൽ ട്രാൻസ്ഫർ റേഷ്യോയിൽ വലിയ മാറ്റം സംഭവിക്കുന്നില്ല അതിനാൽ എല്ലാ കൺട്രോൾഡ് സോഴ്സും റിയലൈസ് ചെയ്യാൻ സാധിക്കും യൂണിറ്റി ഗെയിനിൻറെ തടസ്സവും ഉണ്ടാകുകയില്ല ഏത് ഗെയിൻ ഉള്ള ഏത് കൺട്രോൾഡ് സോഴ്സും റിയലൈസ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മുടെ കയ്യിൽ വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് ആയ MOS ട്രാൻസിസ്റ്റർ ഉണ്ട് ഇത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് VGS gm VGS ഇനി എന്താണ് വ്യത്യാസം ഇവിടെ കാണുന്ന സ്പഷ്ടമായ വ്യത്യാസം എന്തെന്നാൽ കൺട്രോളിങ് നോഡ്സ് കൺട്രോൾഡ് നോഡ്സിൽ നിന്നും പൂർണ്ണമായും വേർപെടുന്നു അതേസമയം ഇവിടെ കൺട്രോളിങ് നോഡ്സിൽ ഒന്നും കൺട്രോൾഡ് നോഡ്സിൽ ഒന്നും പൊതുവായതാണ് ഇതാണ് ട്രാൻസിസ്റ്ററിൻറെ സോഴ്സ് ഇതാണ് നമുക്ക് ഗെയിൻ ഒന്നിൽ കൂടുതൽ ഉള്ള വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് എന്നിവ നിർമ്മിക്കാൻ സാധിക്കാത്തത് ഇത് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിനാൽ ഇവയ്ക്ക് രണ്ടിനും യൂണിറ്റി ഗെയിൻ ആണുള്ളത് അതിനാൽ ഇത് ഉപയോഗിച്ച് എന്തും നിർമ്മിക്കാൻ സാധിക്കും ഇവ എങ്ങനെയെന്നാൽ നമുക്ക് കൺട്രോൾഡ് സോഴ്സസ് തന്നിരിക്കുന്നു പക്ഷേ ഇവ രണ്ടും സ്ഥിരമായി കെട്ടിയിട്ടതുപോലെയാണ് ഇത് നമുക്ക് തകർക്കാൻ സാധിക്കുകയില്ല ഇത് ട്രാൻസിസ്റ്ററിൻറെ ഭാഗമാണ് അതിനാൽ ഗെയിൻ ഒന്നിൽകൂടുതൽ റിയലൈസ് ചെയ്യാൻ സാധിക്കുകയില്ല ഒപാംപ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണെന്നിരിക്കെ ഇവിടെ ഉള്ളതുപോലെ അല്ല ഇതാണ് നമ്മുടെ അടുത്തുള്ളത് ഇത് കൺട്രോൾ സൈഡിൽ നിന്നും വേർപെട്ടാണുള്ളത് കൺട്രോൾ സൈഡിൽ ഒരു ഭാഗം വ്യക്തമായും ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു ഇത് ആയിരിക്കും സർക്യൂട്ടിൽ കോമൺ റഫറൻസ് നോഡ് അതിനാൽ ഈ ടെർമിനൽ ഗ്രൌണ്ടിൽ നിന്നും ഉയർത്താൻ സാധിക്കുകയില്ല ഇത് ഒപാംപിൻറെ ഭാഗമാണ് നമുക്ക് ഈ ടെർമിനൽ മാത്രമാണ് സ്വതന്ത്രമായിട്ടുള്ളത് അതുകൊണ്ടാണ് കറൻറ് സോഴ്സസ് റിയലൈസ് ചെയ്യാൻ സാധിക്കാത്തത് കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് ആയാലും വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് ആയാലും റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല കാരണം കറൻറ് സോഴ്സസ് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടെർമിനൽസ് ആവശ്യമുണ്ട് അതായത് നിങ്ങൾ ഇവിടെ നിന്നുള്ള കറൻറ് ഔട്ട്പുട്ട് മറ്റേ ടെർമിനലിൽ ആവശ്യമായ കറൻറ് ഔട്ട്പുട്ട് സെൻസ് ചെയ്യാൻ നൽകുന്നു എന്നു കരുതുക കാരണം ഇവിടെ നിന്ന് അവിടേക്ക് കറൻറ് ഒഴുകുമ്പോൾ അത് ഈ ടെർമിനലിൽ സെൻസ് ചെയ്യുന്നു കറണ്ട് ഔട്ട്പുട്ട് ആ ടെർമിനലിൽ നൽകുന്നു 2 ടെർമിനൽസും ഒരു കറണ്ട് ഔട്ട്പുട്ട് ഉപകരണത്തിനായി കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് പോലെ ഫ്രീയായിയിരിക്കണം ഇനി ഈ രണ്ട് ടെർമിനലിലേക്ക് പ്രവേശനം ഇല്ലാത്തതിനാൽ ഒപാംപിൽ നിന്നും കറണ്ട് ഔട്ട്പുട്ട് ലഭ്യമാകില്ല അതിനാലാണ് റിയലൈസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി MOS സർക്യൂട്ട്സ് ഉപയോഗിച്ച് ഗെയിൻ ഒന്നിൽ കൂടുതലുള്ള സർക്യൂട്ട്സ് എങ്ങനെ റിയലൈസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതായത് k ഒന്നിൽ കൂടുതൽ ഉള്ള MOS വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് എന്നിവ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ ലക്ച്ചർ അല്പസമയം നിർത്തിവെച്ച് ഇതിനെപ്പറ്റി ചിന്തിക്കുക നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ സാധിക്കും ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്തെന്നാൽ ഒരു MOS വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സിനെ ഒരു MOS കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് പിന്തുടരുക എന്നതാണ് ഇത് സ്കിമാറ്റിക്കലി ഇങ്ങനെ കാണിക്കാം ഇത് Vi ആണെങ്കിൽ ഇവിടെ Io1 ലഭിക്കും അവിടെ Vo ലഭിക്കും Io1 എന്നത് gmVi ആയിരിക്കും Vo എന്നത് RmIo1 ആയിരിക്കും ഇവ ഒരുമിച്ച് ഒന്നിനേക്കാൾ കൂടുതലുള്ള gm Rm എന്ന ഗെയിൻ ലഭിക്കും കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് റിയലൈസ് ചെയ്യണമെങ്കിൽ കാസ്കേഡിങ് ഓർഡർ തിരിച്ചിട്ടാൽ മതിയാകും ആദ്യം ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് അതിനുശേഷം വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഒരു ഇൻപുട്ട് കറൻറ് ഉണ്ടെങ്കിൽ അതിൽനിന്നും Vo1 ലഭിക്കും ഇതിൽ നിന്നും Io ലഭിക്കും വീണ്ടും ഗെയിൻ കൂടുതലായി ക്രമീകരിക്കാൻ സാധിക്കും ഇനി ഇത് സാധ്യമാണ് MOS ട്രാൻസിസ്റ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഗെയിൻ ഒന്നിൽ കൂടുതലുള്ള കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്നിവ റിയലൈസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഒരു കാര്യം എന്തെന്നാൽ ഇവിടെ രണ്ട് വ്യത്യസ്ത ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ട് ഒന്ന് ഈ സ്റ്റേജ് റിയലൈസ് ചെയ്യാനും മറ്റൊന്ന് ആ സ്റ്റേജ് റിയലൈസ് ചെയ്യാനും ഇവയെല്ലാം തന്നെ സിംഗിൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉള്ള MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കും ഇതിലേക്ക് ഒന്നും ഞാൻ വിശദമായി കടക്കുന്നില്ല ഇവ നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നിങ്ങളെ ഏതെങ്കിലുമൊരു കറൻറ് സോഴ്സ് ഉപയോഗിക്കാനും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നാലുതരം കൺട്രോൾഡ് സോഴ്സസ് സിന്തസൈസ് ചെയ്യാനും പ്രേരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നാം മുൻപത്തെ കേസുകളിൽ MOS ട്രാൻസിസ്റ്റർ 2 ഒപാംപ് എന്നിവ ഉപയോഗിച്ച് ചെയ്തതിനു സമാനമാണ് ഇനി നാല് ടെർമിനൽസും സ്വതന്ത്രമാണെങ്കിൽ നമുക്ക് എന്തും റിയലൈസ് ചെയ്യാൻ സാധിക്കും അത് ചെയ്യാൻ ശ്രമിക്കുക ഇതെങ്ങനെയാണ് പ്രവർത്തിയിൽ വരുത്തുക ഒരു സാധ്യത ഉള്ളത് ഒരു ട്രാൻസിസ്റ്റർ മാത്രം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇതുവരെ നാം ശ്രമിച്ചതെല്ലാം രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ളതാണ് വീണ്ടും ഞാൻ ചിത്രം മാത്രം കാണിച്ചു തരാം ബയാസിംഗ് തുടങ്ങിയവ കാണിക്കുന്നില്ല ഉദാഹരണത്തിന് ഇത് ഇൻപുട്ടാണ് എന്നു കരുതുക ഇൻക്രിമെൻറൽ ഇക്വിവാലന്റ് റീപ്ലേസ് ചെയ്തതിനുശേഷം അനാലിസിസ് ചെയ്യുകയാണെന്ന് കരുതുക ഇവ രണ്ടുമാണ് ഔട്ട്പുട്ട്സ് ഇത് പ്ലസ്സിലും ഇത് മൈനസിലും ആണ് അതിനാൽ നമുക്ക് നാല് വ്യത്യസ്ത ടെർമിനൽസ് ഉണ്ട് തീർച്ചയായും ആദ്യം നിങ്ങൾ സിഗ്നൽ പിക്ചർ ഉപയോഗിച്ച് സിന്തസൈസ് ചെയ്യും അതിനു ശേഷം മുഴുവൻ സർക്യൂട്ട് ലഭിക്കാനായി ബയാസിംഗ് ഉൾപ്പെടുത്തും ഇത് ഇനിയും കൃത്യമായി ഇതിന് ഇക്വിവാലന്റ് അല്ല കാരണം ഈ കേസിൽ രണ്ടു ടെർമിനൽസ്സിലും കറൻറ് ഫ്ലോ ഇല്ല അതേസമയം ഈ കേസിൽ ഇതിൽ കറൻറ് ഫ്ലോ ഇല്ല പക്ഷേ അതിൽ കുറച്ച് കറൻറ് ഒഴുകുന്നുണ്ട് അതിനാൽ ഇത് കൃത്യമായി ഇതിന് ഇക്വിവാലന്റ് അല്ല പക്ഷേ ഇത് കൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും 4 കൺട്രോൾഡ് സോഴ്സും ഉണ്ടാക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കോമ്പിനേഷൻ ഒരു ഒപാംപ് ഒരു ട്രാൻസിസ്റ്ററുമായി യോജിപ്പിക്കുക എന്നതാണ് ഇവിടെ രണ്ട് ഇൻപുട്ട് ടെർമിനൽസും ഇവിടെ രണ്ട് വ്യത്യസ്ത ഔട്ട്പുട്ട് ടെർമിനൽസും ഉണ്ട് ഇവിടെ പോകുന്ന കറൻറ് ഇവിടെ പുറത്തുവരുന്നു അതിനാൽ ഈ കറൻറ് സെൻസ് ചെയ്യാനും മറ്റ് സർക്യൂട്ടിന് നൽകാനും സാധിക്കുന്നു ഇത് ഉപയോഗിച്ച് നാലുതരം സോഴ്സസും റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നു ഇത് ഇതിന് ഏകദേശം ഇക്വിവാലന്റ് ആണ് ഇത് ശ്രമിച്ചു നോക്കുകഇത് സിന്തസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് സർക്യൂട്ട്സിനെപ്പറ്റി മനസ്സിലാക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും ഇത് ഉപയോഗിച്ച് നാലുതരം സോഴ്സും ഗെയിനിൽ നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ സിന്തസൈസ് ചെയ്യാൻ സാധിക്കും